ഈ പാഠത്തിൽ ആശ്രിതവും സ്വതന്ത്രവുമായ വേരിയബിളുകളുടെ ഒരു പ്രത്യേക ചോയിസുമായി പൊരുത്തപ്പെടുന്ന y പാരാമീറ്ററുകൾ നമ്മൾ പരിഗണിക്കും നമുക്ക് വീണ്ടും ഒരു ലീനിയർ നെറ്റ്വർക്ക് പരിഗണിക്കാം ഇതിനർത്ഥം ഉള്ളിൽ സ്വതന്ത്ര സ്രോതസ്സുകൾ ഇല്ല എന്നാണ് എന്നാൽ ആശ്രിത ഉറവിടങ്ങളും ലീനിയർ റെസിസ്റ്ററുകളും ഉണ്ടാകാം ഇതാണ് പോർട്ട് ഒന്ന് ഇത് പോർട്ട് രണ്ട് ഈ പോർട്ടുകളിൽ വോൾട്ടേജുകൾ പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം V1 V2 ആ രീതിയിൽ പ്രയോഗിക്കുക അതിനാൽ നമുക്ക് ഇതിലുടനീളം V1 ഉം ഇതിലുടനീളം V2 ഉം ഉണ്ടായിരിക്കും നമുക്ക് ഇവിടെ I1 ഉം I2 ഉം ഉണ്ട് ഈ ദിശകൾ വേരിയബിളുകൾ നിർവചിക്കുന്നതിനുള്ള കൺവെൻഷനാണ് യഥാർത്ഥ കറന്റ് സർക്യൂട്ടിലെ സെറ്റുകളെ ആശ്രയിച്ച് എന്തും ആകാം ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇത് ലീനിയർ സർക്യൂട്ട് ആയതിനാൽ ഓരോ ബ്രാഞ്ച് വോൾട്ടേജും ഉള്ളിലുള്ള കറന്റും V1 V2 എന്നിങ്ങനെയുള്ള സ്വതന്ത്ര സ്രോതസ്സുകളുടെ ലീനിയർ കോമ്പിനേഷനുകളായിരിക്കും അതിനാൽ I1 I2 എന്നിവ V1 V2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളായിരിക്കും അതിനാൽ I1 എന്നത് എന്തെങ്കിലുംxV1 മറ്റെന്തെങ്കിലുംxV2 ആയിരിക്കും ഡയമെൻഷൻ സ്ഥിരത കൈവരിക്കുന്നതിന് ഇവിടെ ഈ അളവുകൾക്ക് ചാലകതയുടെ ഡയമെൻഷൻ ഉണ്ടായിരിക്കണം വാസ്തവത്തിൽ ഇതിനെ y പാരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇതാണ് G എന്നത് ചാലകതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണെന്ന് നമുക്കറിയാം എന്നാൽ ഫ്രീക്വൻസി ഡിപൻഡന്റ് സർക്യൂട്ടിന് അഡ്മിറ്റൻസ് എന്നറിയപ്പെടുന്ന ചാലകതയുടെ സാമാന്യവൽക്കരിച്ച രൂപമുണ്ട് അത് നിലവിലെ വോൾട്ടേജിന്റെ അനുപാതവുമാണ് അതിനെ y എന്ന അക്ഷരത്താൽ സൂചിപ്പിക്കണം അതിനാൽ ഈ ചാലകതയെ ലീനിയർ കോമ്പിനേഷനിലെ ആനുപാതിക സ്ഥിരാങ്കമായി കണക്കാക്കുന്ന ഈ പരാമീറ്ററുകളെ y പരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നു ഈ y പരാമീറ്ററുകൾക്ക് ചാലകതയുടെ അളവുകളുണ്ട് അതുപോലെ കറന്റ് I2 V1 V2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളായിരിക്കും ഈ സ്ഥിരാങ്കങ്ങൾക്ക് വീണ്ടും ചാലകതയുടെ അളവുകൾ ഉണ്ട് ഇപ്പോൾ ഈ നാല് പരാമീറ്ററുകളും ഒരുമിച്ച് ഉണ്ടാവുന്ന രണ്ട് പോർട്ടുകളുടെ y പരാമീറ്ററുകളാണ് y11 y12 y21 y22 ഇപ്പോൾ നിങ്ങൾ രണ്ട് കറന്റുകളെ നീളമുള്ള രണ്ട് അക്ഷരമായി എഴുതുകയാണെങ്കിൽ ഈ ബന്ധം കൂടുതൽ ഒതുക്കത്തോടെ പ്രകടിപ്പിക്കാൻ കഴിയും y11 y12 y21 y22 ഒരു മാട്രിക്സ് ആയി ക്രമീകരിച്ചിരിക്കുന്നു അതിനെ വോൾട്ടേജുകളുടെ വെക്റ്റർ V1 V2 കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ I1 എന്നത് y11 × V1 y12 x V2 ആണ് I2 എന്നത് y21 x V1 y22 × V2 ആണ് അതിനാൽ ഇവിടെയുള്ള ഈ മാട്രിക്സ് രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ y മാട്രിക്സ് എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ y മാട്രിക്സിൽ നാല് പരാമീറ്ററുകൾ അടങ്ങിയിരിക്കുന്നു കാരണം നമുക്ക് രണ്ട് ആശ്രിത വേരിയബിളും രണ്ട് സ്വതന്ത്ര വേരിയബിളുകളും ഉണ്ട് വൈദ്യുതധാരകളെ വോൾട്ടേജുകളുമായും ഈ സബ് സ്ക്രിപ്റ്റുകളുമായും ബന്ധപ്പെടുത്തുന്ന നാല് പാരാമീറ്ററുകൾ ഇവിടെയുണ്ട് അതിനാൽ നമുക്ക് y12 എടുക്കാം അതിനാൽ I1 എന്നതിന്റെ അർത്ഥം y12 × V2 എന്നാണ് ആദ്യത്തെ സബ് സ്ക്രിപ്റ്റ് സൂചിപ്പിക്കുന്നത് അതിനാൽ എന്താണ് y12 × V2 ഇത് I1 ന് V2 ന്റെ സംഭാവനയാണ് അതിനാൽ V2 കാരണം ഉള്ള ഒരു ഫലമാണ് അത് അതിനാൽ ആദ്യത്തെ സബ് സ്ക്രിപ്റ്റ് ഏതൊക്കെ ഇഫക്റ്റുകളെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തേത് ഏത് കാരണങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് ഇതാണ് ഔട്ട്പുട്ട് അതിനാൽ നിങ്ങൾക്ക് I1 നൽകാൻ V2 ന് y12 സ്കെയിൽ ലഭിക്കുന്നു സബ്സ്ക്രിപ്റ്റിന്റെ അർത്ഥം അതാണ് ബാക്കിയുള്ളവർക്കും അതായത് I2 ഉം മറ്റും V2 ന് y22 കൊണ്ട് സ്കെയിൽ ലഭിക്കുന്നത് അതുപോലെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് y പരാമീറ്ററുകളുടെ നിർവചനം ഇതുവരെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അതിനാൽ I1 ഉം I2 ഉം V1 V2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളായിരിക്കുമെന്ന് നമ്മൾക്കറിയാമായിരുന്നു അതാണ് നമ്മൾ പ്രകടിപ്പിച്ചത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു സാധാരണ മാർഗമുണ്ട് അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പോർട്ട് ഉപയോഗിച്ച് ഒരു സാമ്യം ഉണ്ടാക്കുക നിങ്ങൾക്ക് ഒരൊറ്റ പോർട്ട് ഉണ്ടെങ്കിൽ V എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ V1 ന് ഒരു പോർട്ട് മാത്രമേയുള്ളൂ അതിനാൽ V1 കാരണമായും I1 ഫലമായും അതായത് I1 എന്നത് ചില ചാലകത × V1 ആണെന്ന് നമുക്ക് അറിയാം നമ്മൾ ഇതിനെ മറ്റെന്തെങ്കിലും വിളിക്കുന്നു നമ്മൾ ഇതിനെ y11 × V1 എന്ന് വിളിക്കുന്നു ഒരു പോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഒരു പാരാമീറ്റർ മാത്രമേയുള്ളൂ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ നമ്മൾക്ക് നാല് പാരാമീറ്ററുകൾ ഉണ്ട് അതുപോലെ മൂന്ന് പോർട്ട് നെറ്റ്വർക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഒമ്പത് പാരാമീറ്ററുകൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും കാരണം നമ്മൾക്ക് മൂന്ന് വോൾട്ടേജുകളും മൂന്ന് കറന്റുകളും ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് N പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് N വോൾട്ടേജുകളും N കറന്റുകളും തമ്മിൽ ബന്ധമുള്ള പാരാമീറ്ററുകൾ ഉണ്ടാകും ഇപ്പോൾ നമുക്ക് ഇത് ഒരിക്കൽ കൂടി പരിഗണിക്കാം ഈ സാഹചര്യത്തിൽ ഈ പരാമീറ്ററുകൾ എങ്ങനെ അളക്കാമെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ഒരു പോർട്ട് ഉള്ളപ്പോൾ അത് എങ്ങനെ അളക്കാമെന്ന് നമ്മൾക്കറിയാം നമ്മൾ വോൾട്ട് പ്രയോഗിക്കുകയും അതിന്റെ കറന്റും അനുപാതവും കണ്ടെത്തുകയും ചെയ്യുന്നു വോൾട്ടേജിലേക്കുള്ള കറന്റ് ഇതാണ് സിംഗിൾ y പരാമീറ്റർ അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണം നിങ്ങൾ V1 പ്രയോഗിക്കുകയും I1 അളക്കുകയും I1V1 എന്ന അനുപാതം കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ രണ്ട് പോർട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ ഈ പരാമീറ്റർ അളക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് നാല് പാരാമീറ്ററുകൾ ഉണ്ട് അതിനാൽ അതിനർത്ഥം നമുക്ക് നാല് അളവുകളും അത് ചെയ്യുന്നതിനുള്ള സൌകര്യപ്രദമായ മാർഗവും ആവശ്യമാണ് നമുക്ക് y11 അളക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാം ഈ ആദ്യ സമവാക്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ദൃശ്യമാകും അത് V2 0 സജ്ജമാക്കുക എന്നതാണ് രണ്ടാമത്തെ പദങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു നമുക്ക് I1 y11 × V1 ആണ് അതിൽ നിന്ന് നമുക്ക് y11 അളക്കാം V2 0 സജ്ജമാക്കുക V1 പ്രയോഗിച്ച് I1 അളക്കുക കാരണം നമ്മൾ V2 0 വരെ പറഞ്ഞു I1 എന്നത് y11 × V1 ആയിരിക്കും ഇത് 0 ന് തുല്യമായ V2 ആണ് അതിനാൽ y11 എന്നാൽ V2 0 ആയി സജ്ജീകരിക്കുമ്പോൾ I1 നെ V1 കൊണ്ട് ഹരിക്കുന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ V2 പൂജ്യമായി സജ്ജീകരിക്കുന്നതിന്റെ അർത്ഥമെന്താണ് നമ്മൾ രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു അതിനാൽ നിങ്ങൾ രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് ചെയ്യുകയും ആദ്യത്തെ പോർട്ടിലേക്ക് ചാലകത അളക്കുകയും ചെയ്യുന്നു കാരണം നിങ്ങൾ രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സംഗതിയാണ് ഇതെല്ലാം നമ്മൾ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുകയും കറന്റ് വോൾട്ടേജിന്റെ അനുപാതം എടുക്കുന്ന കറന്റ് കണ്ടെത്തുകയും ചെയ്യുവാൻ ആയിട്ട് ഈ രണ്ട് ടെർമിനലുകൾ മാത്രമേയുള്ളൂ അതിനാൽ പോർട്ട് ഒന്ന് ഉള്ളപ്പോഴും പോർട്ട് രണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴും ഇത് ചാലകത അല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ y11 അളക്കണം അതിനാൽ നിങ്ങൾക്ക് y12 അളക്കണമെങ്കിൽ മറ്റ് മൂന്ന് പാരാമീറ്ററുകൾക്കായി നമ്മൾക്ക് ഇത് തുടരാം നിങ്ങൾ V1 പൂജ്യം സജ്ജീകരിക്കുന്ന ആശയം തന്നെയാണ് അത് I1 എന്നത് y11 V1 y12 V2 അതിനാൽ നിങ്ങൾ സെറ്റ് V1 പൂജ്യം സജ്ജീകരിക്കുകയാണെങ്കിൽ ഈ പദം അപ്രത്യക്ഷമാകുന്നു നിങ്ങൾക്ക് y12 അടങ്ങിയിരിക്കുന്ന ഒരേയൊരു പദം ഉണ്ടായിരിക്കും തുടർന്ന് നിങ്ങൾ V2 പ്രയോഗിച്ച് I1 അളക്കുക അതായത് നമ്മൾക്ക് ഒന്ന് രണ്ട് പോർട്ടുകൾ ഉണ്ട് ഇത് V2 നമ്മൾ പോർട്ട് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു അതായത് V1 0 ക്രമീകരിക്കുന്നു നമ്മൾ V2 പ്രയോഗിക്കുകയും I1 അളക്കുകയും ചെയ്യുന്നു അതായത് വോൾട്ടേജ് പോർട്ട് രണ്ടിൽ പ്രയോഗിക്കുമ്പോൾ പോർട്ട് ഒന്നിലെ കറന്റ് നമ്മൾ അളക്കുന്നു നിങ്ങൾക്ക് y12 എന്നത് I1 V2 ആയി കണക്കാക്കാം V1 0 ആയി സജ്ജീകരിക്കാം അതായത് പോർട്ട് ഒന്ന് ഷോർട്ട് അറ്റ് അതിനാൽ ചാലകതയുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കറന്റും പോർട്ട് ഒന്ന്ൽ അളന്നാൽ വോൾട്ടേജുകൾ പോർട്ട് 2 ന് താഴോട്ട് പ്രയോഗിക്കുന്നു ഇത് ട്രാൻസ് കണ്ടക്ടൻസ് മെഷർമെന്റല്ല നിങ്ങൾ ഇവിടെ വോൾട്ടേജ് പ്രയോഗിക്കുകയും നമ്മൾ വോൾട്ടേജ് പ്രയോഗിക്കുന്നിടത്ത് കറന്റ് അളക്കുകയും ചെയ്യുന്നു അതേ പോർട്ടിലെ കറന്റ് അളക്കുകയാണെങ്കിൽ നിങ്ങൾ ചാലകത അളക്കും മറ്റേതെങ്കിലും പോർട്ടിലെ കറന്റ് നിങ്ങൾ അളക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രാൻസ് കണ്ടക്റ്റൻസ് അളക്കും അതിനാൽ ഇതിനെ പോർട്ട് രണ്ടിൽ നിന്ന് പോർട്ട് വണ്ണിലേക്കുള്ള ട്രാൻസ് കണ്ടൻഡൻസ് എന്നും വിളിക്കാം അതാണ് ഉത്തേജനം പോർട്ട് രണ്ടിലുണ്ടാകാൻ കാരണം ഇഫക്റ്റ് അല്ലെങ്കിൽ പ്രതികരണം പോർട്ട് ഒന്നിലാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വ്യക്തമായ വിപുലീകരണത്തിലൂടെ നമ്മൾക്ക് മറ്റ് രണ്ട് പാരാമീറ്ററുകളും അളക്കാൻ കഴിയും നിങ്ങൾക്ക് y21 എന്നത് I2 y21 V1 y22 V2 വഴി അളക്കാൻ കഴിയും y21 അടങ്ങിയിരിക്കുന്ന പദം മാത്രം നിലനിർത്തുക നമ്മൾ V2 നെ പൂജ്യമായി സജ്ജമാക്കുന്നു അതിനാൽ പൂജ്യം പ്രയോഗിക്കുക V1 ന് തുല്യമായ V സജ്ജീകരിക്കുക I2 y21 അളക്കുക y21 എന്ന അനുപാതം I2V1 ആയിരിക്കും V2 പൂജ്യമായിരിക്കും ഞാൻ അതിനുള്ള സർക്യൂട്ട് വരച്ചാൽ ഞാൻ V1 ആദ്യ പോർട്ടിലേക്ക് പ്രയോഗിക്കുന്നു രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും ഞാൻ കറന്റ് I2 അളക്കുകയും ചെയ്യുന്നു അതിനാൽ പോർട്ട് രണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് പോർട്ട് രണ്ടിൽ നിന്ന് പോർട്ട് 1ലേക്ക് ട്രാൻസ് കണ്ടണ്ടൻസ് ഞാൻ അളക്കുന്നു അവസാനമായി y22 അളക്കാൻ I2 എന്നത് y21 V1 y22 V2 ആണ് കൂടാതെ y22 അളക്കാൻ V1 പൂജ്യത്തിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ V1 പൂജ്യമായി സജ്ജീകരിച്ചതിന് ശേഷം I2 അളക്കുകയും I2 V2 അനുപാതമായി കണക്കാക്കുകയും V1 പൂജ്യമായി കണക്കാക്കുകയും ചെയ്യുന്നു ഈ അനുപാതം y22 എന്താണ് നമ്മൾ പോർട്ട് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു നമ്മൾ ഇവിടെ V2 പ്രയോഗിക്കുന്നു I2 അവിടെ പോകുന്നു അതിനാൽ പ്രധാനമായും നമ്മൾ പോർട്ട് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് പോർട്ട് രണ്ടിലേക്ക് ഉള്ള ചാലകത അളക്കുകയാണ് പോർട്ട് രണ്ടിലെ ചാലകത ഇതാണ് അതിനാൽ നാല് പാരാമീറ്ററുകൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നാല് പാരാമീറ്ററുകൾ അളക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നാല് അളവുകൾ നിർമ്മിക്കുക എന്നതാണ് അതാണ് ഏറ്റവും സൌകര്യപ്രദമായ മാർഗ്ഗം അത് പോർട്ടുകളിലൊന്ന് ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിക്കുക എന്നതാണ് രണ്ട് പോർട്ടുകളിലും അളവെടുക്കുക തുടർന്ന് മറ്റ് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കി രണ്ട് പോർട്ടുകളിലും അളവുകൾ നടത്തുക അങ്ങനെ നിങ്ങൾക്ക് നാല് പാരാമീറ്ററുകൾ ലഭിക്കും ഇപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള മറ്റ് വഴികൾ വ്യത്യസ്തമായ V1 V2 എന്നിവയ്ക്കായി എടുക്കുക എന്നത് ഈ കോമ്പിനേഷനുകൾക്കായി I1 I2 കറന്റ് അളക്കുക നിങ്ങൾക്ക് നാല് വ്യത്യസ്ത സമവാക്യങ്ങൾ ലഭിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് നാല് പാരാമീറ്ററുകൾ പരിഹരിക്കാനാകും എന്നാൽ നാല് പരാമീറ്ററുകൾ കണക്കാക്കുന്നതിനുള്ള ഏറ്റവും സൌകര്യപ്രദമായ മാർഗമാണിത് ഇപ്പോൾ y പരാമീറ്ററുകളുടെ അളവെടുപ്പിൽ പോർട്ടുകൾ ഷോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ y പരാമീറ്ററുകൾ ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്ററുകൾ എന്നും അറിയപ്പെടുന്നു അതിനാൽ y11 എന്നത് I1V1 ആണ് ഓർക്കുക രണ്ടാമത്തെ സബ് സ്ക്രിപ്റ്റ് ഇവിടെ പോകുന്നു ആദ്യത്തേത് V2 ന് തുല്യമാണ് അതായത് പോർട്ട് രണ്ട് ഷോർട്ട് ആണ് y12 എന്നത് I1V2 ന് തുല്യമാണ് V1 അല്ലെങ്കിൽ പോർട്ട് ഒന്ന് ഷോർട്ട് ആണ് y21 എന്നത് I2V1 ആണ് ഒപ്പം V2 പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ അവിടെ പോർട്ട് രണ്ട് ഷോർട്ട് ആണ് അവസാനമായി y22 എന്നത് I2V2 ആണ് V1 എന്നത് പൂജ്യം ആണ് അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പോർട്ട് ഷോർട്ട് ചെയ്യുക ആണ് അതായത് V2 0 ന് തുല്യമായ പോർട്ട് ഷോർട്ട് ചെയ്യുക വോൾട്ടേജ് V1 പ്രയോഗിക്കുക തുടർന്ന് നിങ്ങൾക്ക് I1 അളക്കാൻ കഴിയും അതുപോലെ y21 ലഭിക്കാൻ I2 അളക്കുക തുടർന്ന് പോർട്ട് രണ്ടിൽ നിന്ന് ഷോർട്ട് നീക്കം ചെയ്യുക അതിനുപകരം പോർട്ട് ഒന്ന് ഷോർട്ട് ചെയ്യുക പോർട്ട് രണ്ടിലേക്ക് V2 പ്രയോഗിക്കുക തുടർന്ന് y12 ലഭിക്കാൻ I 1 അളക്കുക y22 ലഭിക്കാൻ I2 അളക്കുക ഇപ്പോൾ ഈ രണ്ട് y11 y22 എന്നിവ പ്രത്യേക വ്യവസ്ഥകളിൽ ചാലകമാണ് മറ്റൊരു പോർട്ട് ഷോർട്ട് ആയി സർക്യൂട്ടിലേക്ക് നോക്കുന്ന ചാലകതയാണ് ഇത് y21 ഉം y12 ഉം ട്രാൻസ് കണ്ടക്ടൻസാണ് അത് നിലവിലെ വോൾട്ടേജുകളുടെ അനുപാതമാണ് എന്നാൽ വോൾട്ടേജു സജ്ജീകരിച്ചിരിക്കുന്ന അതേ പോർട്ടിൽ അല്ല മറ്റ് പോർട്ടുകളിൽ കറന്റ് സജ്ജീകരിച്ചിരിക്കുന്നു